ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ID എന്നത് mu n C ox W ബൈ LVGS മൈനസ് VT തവണ VDS മൈനസ് VDS സ്ക്വയർ ബൈ രണ്ട് ത്രിയോഡ് റീജിയണിൽ അതായത് VT യെക്കാൾ VGS വലുതും VGS മൈനസ് VT യെക്കാൾ VDS ചെറുതും ആണ് ഇപ്പോൾ നിങ്ങൾ ഊഹിച്ചാൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് വളരെ ചെറുതാണ് VGS മൈനസ് VT യേക്കാൾ വളരെ ചെറുതാണ് VDS ഈ ID ഈ വലത്തിനെ അപേക്ഷിച്ച് ഏകദേശം ഈ സ്ക്വയർ ടേം അവഗണിക്കാം കാരണം ഈ പദം മുഴുവൻ VGS മൈനസ് VT മൈനസ് VDS ബൈ രണ്ട് മടങ്ങ് VDS ആണ് ഈ ഏകദേശ കണക്ക് അനുമാനിച്ചു കൊണ്ട് ഞാൻ ഈ പദം അവഗണിക്കുകയാണ് അതിനാൽ ID എന്നത് mu n C ox W ബൈ LVGS മൈനസ് VT തവണ VDS ആണ് അതിനാൽ ID എന്നത് VDS നൊപ്പം രേഖീയമായി വ്യത്യാസപ്പെടുന്നു അതിനാലാണ് ഇതിനെ രേഖീയ മേഖല എന്ന് വിളിക്കുന്നത് VDS വളരെ ചെറുതായിരിക്കുമ്പോൾ ID VDS മായി ഏകദേശം രേഖീയമായി വ്യത്യാസപ്പെടുന്നു ഇക്കാരണത്താൽ ഇതിനെ ലീനിയർ റീജിയൻ എന്ന് വിളിക്കുന്നു ഈ മൂല്യങ്ങളുടെ കൂട്ടം ഇതിനെ MOS ട്രാൻസിസ്റ്ററിന്റെ രേഖീയ മേഖല എന്ന് വിളിക്കുന്നു ഇതിനും ചില ആപ്ലിക്കേഷനുകൾ ഉണ്ടെന്നായി മാറുന്നു കാരണം ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ പ്രയോഗിക്കുന്ന വോൾട്ടേജാണ് VDS കൂടാതെ ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒഴുകുന്ന കറന്റാണ് ID രണ്ട് ടെർമിനലുകൾക്കും ഇടയിൽ വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റെസിസ്റ്ററിനെ ഇത് അനുസ്മരിപ്പിക്കുന്നു ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു കറന്റ് ഒഴുകുന്നു ഒരു റെസിസ്റ്ററിൽ ഈ വൈദ്യുതധാര രേഖീയമായി വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കുന്നു ട്രയോഡ് മേഖലയിൽ ഡ്രെയിൻ കറന്റ് ID രേഖീയമായി VDS നെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ പ്രധാന കാര്യം ഇവിടെ ആനുപാതികതയുടെ സ്ഥിരതയാണ് ഇത് MOS ട്രാൻസിസ്റ്ററിന്റെ ചാലകതയാണ് ഞാൻ അതിനെ Gmos എന്ന് വിളിക്കും ഇത് VGS നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു ഇലക്ട്രോണിക് നിയന്ത്രണത്തിലുള്ള റെസിസ്റ്ററാണ് VGS മാറ്റുന്നതിലൂടെ ഡ്രെയിനിനും ഉറവിടത്തിനും ഇടയിലുള്ള ചാലകത നമുക്ക് മാറ്റാൻ കഴിയും അതിനാൽ ചിലപ്പോൾ അത് ആ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു ട്രയോഡ് മേഖലയിലെ MOS ട്രാൻസിസ്റ്റർ ഒരു വോൾട്ടേജ് നിയന്ത്രിത റെസിസ്റ്ററാണ് പൊതുവേ ഇലക്ട്രോണിക് ട്യൂൺ ചെയ്യാവുന്ന എന്തും ഉപയോഗപ്രദമാണ് കാരണം സർക്യൂട്ടിലെ ചില ഉപയോഗപ്രദമായ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നിങ്ങൾക്കറിയാമോ ഒന്നാമതായി ഇലക്ട്രോണിക്സിന്റെ ധാരാളം വിശദാംശങ്ങൾ അറിയാതെ തന്നെ ഈ ദിവസങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ഇലക്ട്രോണിക് നിയന്ത്രണത്തിലാണെന്നും ഇലക്ട്രോണിക് നിയന്ത്രിത റെസിസ്റ്ററും സമാനമായ തിരയലിൽ ഉപയോഗപ്രദമാണെന്നും നിങ്ങൾക്കറിയാം